നമസ്കാരം അതിനാൽ അവസാന ക്ലാസ്സിൽ നമ്മൾ സ്റ്റേറ്റ് പരിവർത്തന മട്രിക്സിനെക്കുറിച്ചും സ്റ്റേറ്റ് പരിവർത്തന സമവാക്യങ്ങളെക്കുറിച്ചും ചർച്ചചെയ്തു അതിനാൽ സർക്യൂട്ട് വിശകലനത്തിൽ സ്റ്റേറ്റ് വേരിയബിൾ വിശകലനത്തിൻറെ പ്രയോഗത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും അതിനാൽ ഇന്നത്തെ ചർച്ച ആരംഭിക്കാം സർക്യൂട്ട് വിശകലനത്തിൽ സ്റ്റേറ്റ് വേരിയബിളിൻറെ പ്രയോഗത്തിലേക്ക് പോകുന്നതിനുമുമ്പ് സ്റ്റേറ്റ് സമവാക്യങ്ങളും ട്രാൻസ്ഫർ ഫങ്ക്ഷനുകളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആദ്യം മനസിലാക്കാം അതിനാൽ ഡൈനാമിക് സമവാക്യം പിന്തുടർന്ന് ലീനിയർ ടൈം ഇൻവേരിയൻറെ സിസ്റ്റത്തെ വിവരിക്കാമെന്ന് നമുക്കറിയാം അതിനാൽ ആദ്യം സ്റ്റേറ്റ് സമവാക്യം ഔട്ട്പുട്ട് സമവാക്യം അതായത് എ ബി സി ഡി എന്നിവ ഉചിതമായ അളവുകളുടെ ഗുണക മാട്രിക്സാണ് ഇപ്പോൾ സ്റ്റേറ്റ് സമവാക്യത്തിൻറെ ഇരുവശത്തും ലാപ്ലേസ് പരിവർത്തനം എടുത്ത് സമവാക്യം പുനർക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് സമവാക്യത്തിൻറെ ലാപ്ലേസ് പരിവർത്തനം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഔട്ട്പുട്ട് സമവാക്യത്തിൽ നിങ്ങൾക്ക് നു പകരം കൾക്കായി കണക്കാക്കിയ മൂല്യം ഉപയോഗിച്ച് മാറ്റാം കൂടാതെ നമുക്ക് എഴുതാം ഇപ്പോൾ നിങ്ങൾ ഈ സമവാക്യം കാണുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് x 0 എന്ന മൂല്യമുണ്ട് അതിനാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആ പ്രാരംഭ അവസ്ഥ 0 ആയി സജ്ജമാക്കേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ചർച്ച ചെയ്തപ്പോൾ ഇത് ചർച്ചചെയ്തു ഇപ്പോൾ നിങ്ങൾ പ്രാരംഭ അവസ്ഥ 0 ആയി സജ്ജമാക്കി മുകളിലുള്ള സമവാക്യം ലളിതമാക്കുകയാണെങ്കിൽ അതിനാൽ സ്റ്റേറ്റ് സമവാക്യവും ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉം തമ്മിലുള്ള ബന്ധത്തെ നിർവചിക്കുന്ന സമവാക്യമാണിത് അതിനാൽ നിങ്ങൾക്ക് എ ബി സി ഡി കോയഫിഷ്യൻറ്റൂകൾ അല്ലെങ്കിൽ കോയഫിഷ്യൻഡ് മെട്രിക്സുകൾ കണ്ടെത്താൻ കഴിയുന്ന സ്റ്റേറ്റ് സമവാക്യങ്ങൾ നൽകിയാൽ നിങ്ങൾക്ക് സിസ്റ്റത്തിൻറെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണക്കാക്കാം ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസിലാക്കാൻ ഒരു ഉദാഹരണം എടുക്കാം ഈ രണ്ട് ഡിഫറൻഷ്യൽ സമവാക്യങ്ങളുടെ സഹായത്തോടെ വിവരിച്ചിരിക്കുന്ന ഒരു മൾട്ടിവെരിയബിൾ സിസ്റ്റം പരിഗണിക്കുക അതിനാൽ ആദ്യത്തേത് രണ്ടാമത്തേത് ഇപ്പോൾ സിസ്റ്റത്തിലെ സ്റ്റേറ്റ് വേരിയബിളുകളെ എന്ന് നിർവചിക്കാം അതിനാൽ അത് ഒരു സ്റ്റേറ്റ് വേരിയബിൾ അതിനാൽ സിസ്റ്റത്തിനായി ഈ 3 സ്റ്റേറ്റ് വേരിയബിളുകൾ നിർവചിക്കുമ്പോൾ നമുക്ക് ഈ 2 ഡിഫറൻഷ്യൽ സമവാക്യം സ്റ്റേറ്റ് വേരിയബിളിന്റെ രൂപത്തിൽ എഴുതാം അതിനാൽ ഇതിനായി നിങ്ങൾ എന്താണ് എഴുതുക ഇപ്പോൾ ഓരോ സമവാക്യങ്ങളുടെയും ആദ്യ പദം ബാക്കി നിബന്ധനകളുമായി തുലനം ചെയ്യുകയും നിർവചിക്കപ്പെട്ട സ്റ്റേറ്റ് വേരിയബിൾ ബന്ധങ്ങൾ ഉപയോഗിക്കുകയും ആണെങ്കിൽ വെക്ടർ മാട്രിക്സ് രൂപത്തിൽ ഇനിപ്പറയുന്ന സ്റ്റേറ്റ് സമവാക്യങ്ങളിലും ഔട്ട്പുട്ട് സമവാക്യങ്ങളിലും നമ്മൾ എത്തിച്ചേരുന്നു ഇപ്പോൾ ഔട്ട്പുട്ട് സമവാക്യത്തിൽ നിങ്ങൾക്ക് ഇൻപുട്ട് വേരിയബിൾ ഇല്ലാത്തതിനാൽ ഡി കോയഫിഷ്യൻഡ് മാട്രിക്സ് 0 ആയിരിക്കും അതിനാൽ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് എ ആയി ലഭിക്കും ഇത് നിങ്ങൾക്ക് ബി ആയി ലഭിക്കും ഇതാണ് സി മെട്രിക്സായി നിങ്ങൾക്കുള്ളത് ഡി തീർച്ചയായും 0 അതിനാൽ ഇപ്പോൾ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടെത്തണമെങ്കിൽ എന്ന ഡെറിവേഷൻ നമ്മൾ ഉപയോഗിക്കും അതിനാൽ ആദ്യം നമ്മൾ യുടെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട്

സ്റ്റേറ്റ് വേരിയബിൾ രീതികളുടെ സഹായത്തോടെ നമ്മൾ എങ്ങനെ സർക്യൂട്ട് വിശകലനം നടത്തും അതിനാൽ നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പോൾ പല എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിനും ഒന്നിലധികം ഇൻപുട്ടും ഒന്നിലധികം ഔട്പുട്ടുകളും ഉള്ളതിനാൽ ഒന്നിലധികം ഇൻപുട്ടുകളും ഒന്നിലധികം ഔട്പുട്ടുകളും ഉള്ള അത്തരം സങ്കീർണ്ണമായ സിസ്റ്റങ്ങളെ വിശകലനം ചെയ്യുന്നതിനു മനസിലാക്കുന്നതിനും സ്റ്റേറ്റ് വേരിയബിൾ രീതി വളരെ പ്രധാനപ്പെട്ട ഉപകരണമാണ് അതിനാൽ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ കാര്യത്തിൽ നമ്മൾ സാധാരണയായി കാണുന്ന സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് മോഡലിനേക്കാൾ പൊതുവായതാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത സ്റ്റേറ്റ് വേരിയബിൾ മോഡൽ അപ്പോൾ സ്റ്റേറ്റ് വേരിയബിൾ മോഡൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് സിസ്റ്റത്തിന്റെ ആന്തരിക സ്വഭാവത്തെ വിവരിക്കുന്ന വേരിയബിളുകളുടെ ഒരു ശേഖരം വ്യക്തമാക്കുന്നു ഈ വേരിയബിളുകളെ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് വേരിയബിളുകൾ എന്ന് വിളിക്കുന്നു സിസ്റ്റത്തിന്റെ നിലവിലെ അവസ്ഥയും ഇൻപുട്ട് സിഗ്നലുകളും നമുക്ക് അറിയുമ്പോൾ സിസ്റ്റത്തിന്റെ ഭാവി സ്വഭാവം നിർണ്ണയിക്കുന്ന വേരിയബിളുകളാണ് ഇവ അതിനാൽ അതിനർത്ഥം നിങ്ങൾ കണ്ടെത്തിയ സ്റ്റേറ്റ് വേരിയബിൾ സിസ്റ്റത്തിന്റെ ഭാവി സ്വഭാവം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡക്റ്റർ കറന്റ് കപ്പാസിറ്റർ വോൾട്ടേജുകൾ എന്ന് സാധാരണയായി കണക്കാക്കുന്ന സ്റ്റേറ്റ് വേരിയബിളുകൾ സിസ്റ്റത്തിന്റെ ഊർജ്ജ നിലയെ കൂട്ടായി വിവരിക്കുന്നു ഇപ്പോൾ നമ്മൾ അത് എങ്ങനെ നടപ്പാക്കുമെന്ന് നോക്കാം അതിനാൽ നമ്മുടെ സർക്യൂട്ട് വിശകലന രീതിയിലേക്ക് സ്റ്റേറ്റ് വേരിയബിൾ വിശകലനം പ്രയോഗിക്കുന്നതിന് നമ്മൾ ഇനിപ്പറയുന്ന മൂന്ന് ഘട്ടങ്ങൾ പാലിക്കുന്നു ആദ്യ ഘട്ടം നമ്മൾ ഇൻഡക്റ്റർ കറന്റ് i കപ്പാസിറ്റർ വോൾട്ടേജ് v എന്നിവ സ്റ്റേറ്റ് വേരിയബിളായി തിരഞ്ഞെടുക്കും നമ്മുടെ ആദ്യ ക്ലാസുകളിൽ ചർച്ച ചെയ്ത നിഷ്ക്രിയ ചിഹ്ന കൺവെൻഷനുമായി അവ പൊരുത്തപ്പെടുന്നുവെന്ന് നമ്മൾ ഉറപ്പാക്കണം ഇപ്പോൾ നമുക്ക് സർക്യൂട്ടിൽ കെസിഎല്ലും കെവിഎല്ലും പ്രയോഗിച്ച് സർക്യൂട്ട് വേരിയബിളുകൾ നേടാം അതിനാൽ ഈ സ്റ്റേറ്റ് വേരിയബിളുകളുടെ അടിസ്ഥാനത്തിൽ വോൾട്ടേജുകളും വൈദ്യുതധാരകളുമാണ് സർക്യൂട്ട് വേരിയബിളുകൾ ഇത് ഒരു കൂട്ടം ആദ്യ ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യത്തിലേക്ക് നയിക്കും കാരണം നിങ്ങൾ കപ്പാസിറ്ററിലുടനീളമുള്ള വോൾട്ടേജിനെയും നിലവിലെ കപ്പാസിറ്റർലെ വോൾട്ടേജിനെയും ഇൻഡക്റ്ററിലൂടെ വൈദ്യുതധാരയെയും കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ ലഭിക്കും അത് സ്റ്റേറ്റ് വേരിയബിളുകൾ നിർണ്ണയിക്കാൻ ആവശ്യമായതും പര്യാപ്തവുമാണ് ഇപ്പോൾ ഔട്ട്പുട്ട് സമവാക്യം നേടുക ഫലം സ്റ്റേറ്റ് സ്പേസ് ഫോർമാറ്റിൽ ഇടുക അതിനാൽ ഇത് എങ്ങനെ നടപ്പാക്കാമെന്ന് കാണാൻ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ എടുക്കാം അതുവഴി നിങ്ങൾക്ക് ഈ ആശയം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഇവിടെ നമുക്ക് സ്റ്റേറ്റ് സ്പേസ് ഉണ്ട് ചുവടെയുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ സ്റ്റേറ്റ് സ്പേസ് റിപ്രസെന്റേഷൻ കണ്ടെത്തേണ്ടതുണ്ട് സർക്യൂട്ടിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ നിർണ്ണയിക്കേണ്ടതുണ്ട് ഇവിടെ vs ഇൻപുട്ടും ix ഔട്ട്പുട്ട്ട്ടും ആണ് അതിനാൽ ix ന്റെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് vs ഒരു ഇൻപുട്ടായി നൽകിയിരിക്കുന്നു റെസിസ്റ്റൻസ് ന്റെ മൂല്യം R 1Ω C 0 25F L 0 ഇപ്പോൾ ഈ സർക്യൂട്ടിൽ നമ്മൾ എന്തു ചെയ്യും നമ്മൾ ആദ്യം ഇൻഡക്റ്റർ കറന്റ് i കപ്പാസിറ്റർ വോൾട്ടേജ് v എന്നിവ സ്റ്റേറ്റ് വേരിയബിളുകളായി തിരഞ്ഞെടുക്കും അതിനാൽ അവയെ ഒരു സ്റ്റേറ്റ് വേരിയബിളായി കാണുമ്പോൾ നമുക്ക് ആദ്യം കണ്ടെത്താൻ കഴിയുന്നത് എന്താണ് നമുക്ക് കണ്ടെത്താം നമ്മളുടെ മുൻ ക്ലാസുകളിൽ നമ്മൾ ഇതിനകം ചർച്ച ചെയ്ത സമവാക്യങ്ങളാണിവ ഇപ്പോൾ നമുക്ക് നോഡ് 1 ൽ KCL പ്രയോഗിക്കാം അതിനാൽ നോഡ് 1 ൽ KCL പ്രയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയുക ഇപ്പോൾ അടുത്തതായി നമുക്ക് ലഭിക്കുന്ന ബാഹ്യ ലൂപ്പിന് ചുറ്റും KVL പ്രയോഗിക്കുന്നു ഇപ്പോൾ മുകളിലുള്ള സമവാക്യങ്ങളിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ് സമവാക്യം ലഭിക്കുന്നു ഇപ്പോൾ ഒരു ഔട്ട്പുട്ടായി എടുക്കുകയാണെങ്കിൽ അതിനാൽ നിങ്ങൾ ഈ സമവാക്യങ്ങൾ ശരിയാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇനിപ്പറയുന്ന സ്റ്റേറ്റ് സമവാക്യം ലഭിക്കും

ഇപ്പോൾ നിങ്ങൾക്ക് എ ലഭിച്ചു നിങ്ങൾക്ക് ബി ലഭിച്ചു നിങ്ങൾക്ക് സി ലഭിച്ചു തീർച്ചയായും D 0 ആണ് അതിനാൽ നമ്മൾ എന്തു ചെയ്യും നമുക്ക് ഉണ്ട് അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് എ ബി സി എന്നിവ ലഭിച്ചു അതിന്റെ മൂല്യം ആദ്യം കണ്ടെത്തുക എന്നതാണ് അടുത്ത ദൌത്യം അതിനാൽ നമുക്ക് ഉദാഹരണത്തിൽ ഉള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ടുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണെന്ന് പറയാൻ കഴിയും ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം അതിനാൽ ചുവടെയുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് പരിഗണിക്കുക ഇത് രണ്ട് ഇൻപുട്ടും രണ്ട് ഔട്പുട്ടും ഉള്ള സിസ്റ്റം ആയി കണക്കാക്കാം മുമ്പത്തെ കേസിൽ ലളിതമായ സിംഗിൾ ഔട്ട്പുട്ട് സിസ്റ്റം നിങ്ങൾ കണ്ടു ഇവിടെ നമുക്ക് 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ട് സിസ്റ്റം മുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ മോഡലും സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനും നിർണ്ണയിക്കേണ്ടതുണ്ട് ഇപ്പോൾ രണ്ട് ഇൻപുട്ടുകൾ ഉള്ളപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ എന്തു ചെയ്യും എന്താണ് ആ ഇൻപുട്ടുകൾ vi vs എന്നിവ സർക്യൂട്ടിലെ രണ്ട് ഇൻപുട്ടുകളാണ് നിങ്ങൾക്ക് രണ്ട് ഔട്ട്പുട്ട്കൾ ഉണ്ട് അതിനാൽ നമുക്ക് v0 i0 എന്നിവയുടെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് v0 എന്നത് 2 ഓം പ്രതിരോധത്തിലുടനീളമുള്ള വോൾട്ടേജും i0 ആണ് നിലവിലുള്ള 3 ഓം പ്രതിരോധത്തിലൂടെ വൈദ്യുതി പ്രവാഹം ആണ് അതിനാൽ vi vs എന്നിവ ഈ കേസിൽ ഒരു ഇൻപുട്ടായി കണക്കാക്കുകയും v0 i0 എന്നിവ ഔട്ട്പുട്ട് ആയി കണക്കാക്കുകയും ചെയ്യുന്നു അതിനാൽ മുമ്പത്തെ കേസിൽ നമ്മൾ ചെയ്തതുപോലെ ഈ സാഹചര്യത്തിലും നമ്മൾ ഇൻഡക്റ്റർ കറന്റും കപ്പാസിറ്റർ വോൾട്ടേജും സ്റ്റേറ്റ് വേരിയബിളുകളായി തിരഞ്ഞെടുക്കുന്നു അതിനാൽ ആദ്യം നമ്മൾ എന്തു ചെയ്യും ഇടത് ലൂപ്പിന് ചുറ്റും നമ്മൾ കെവിഎൽ പ്രയോഗിക്കും അതിനാൽ ഇത് ഇടത് ലൂപ്പാണ് നിങ്ങൾ കെവിഎൽ പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നതെന്താണ് ഇപ്പോൾ നിങ്ങൾ പുനർക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം നമുക്ക് ഇല്ലാതാക്കേണ്ടതുണ്ട് 1Ω റെസിസ്റ്റർ 2Ω റെസിസ്റ്റർ കപ്പാസിറ്റർ എന്നിവ അടങ്ങിയിരിക്കുന്ന ലൂപ്പിന് ചുറ്റും കെവിഎൽ പ്രയോഗിക്കുന്നു അതിനാൽ നിങ്ങൾ ഇതിന് ചുറ്റും കെവിഎൽ പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും എന്നാൽ നോഡ് 1 ൽ കെസിഎൽ നൽകുന്നു മുകളിൽ ഉള്ള 2 സമവാക്യങ്ങൾ നിന്ന് ഇപ്പോൾഇന്റെ മൂല്യം എന്ന് സമവാക്യത്തിൽ ഇടുമ്പോൾ ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സമവാക്യം ലഭിച്ചു ഇപ്പോൾ രണ്ടാമത്തേത് ലഭിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നോഡ് 2 ൽ നമ്മൾ കെസിഎൽ പ്രയോഗിക്കുന്നു അതിനാൽ നോഡ് 2 ൽ കെസിഎൽ പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണ് ഇപ്പോൾ ഇല്ലാതാക്കാൻ നമ്മൾ എന്ത് ചെയ്യും വലത് ലൂപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കും ഇത് നമുക്ക് ഈ ലൂപ്പിൽ നിന്നും മുമ്പത്തെ ചർച്ചയിൽ നിന്നും ഉം അതിനാൽ നിങ്ങൾ ഈ മൂല്യങ്ങൾ നൽകി ലളിതമാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ നമുക്ക് i0 v0 എന്നിവയുടെ മൂല്യം ലഭിച്ചു ഈ മൂല്യങ്ങളെ മുകളിലുള്ള സമവാക്യത്തിൽ ഉൾപ്പെടുത്തി ലളിതമാക്കുന്നു നിങ്ങൾ ലളിതമാക്കുമ്പോൾ നമുക്ക് ലഭിക്കും അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ് സമവാക്യം ലഭിച്ചു ഇത് ആദ്യത്തേതാണ് അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഇത് മട്രിക്സിന്റെ രൂപത്തിൽ കംപൈൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എഴുതാൻ കഴിയുന്ന സ്റ്റേറ്റ് സമവാക്യം അതിനാൽ ഈ പ്രത്യേക സർക്യൂട്ടിനെ എങ്ങനെ സ്റ്റേറ്റ് സ്പേസ് റിപ്രസെന്റേഷൻ ആക്കി മാറ്റാമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസിലാക്കാൻ കഴിയും ഇപ്പോൾ നിങ്ങൾക്ക് എ ബി സി ഡി എന്നിവയുണ്ട് അതിനാൽ ട്രാൻസ്ഫർ ഫംഗ്ഷന് നിങ്ങൾക്ക് എന്ന് കണക്കാക്കാം അതിനാൽ എ ബി സി ഡി എന്നിവയുടെ മൂല്യങ്ങൾ ഈ മട്രിക്സിൽ ഇടുക കൂടാതെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ H നിങ്ങൾ ലളിതമാക്കുക അതിനാൽ സർക്യൂട്ട് വിശകലനത്തിൽ സ്റ്റേറ്റ് സ്പേസ് സ്റ്റേറ്റ് വേരിയബിൾ സമവാക്യങ്ങളുടെ പ്രയോഗത്തെക്കുറിച്ച് പ്രധാനമായും ചർച്ച ചെയ്ത ഈ ക്ലാസ് അവസാനിപ്പിക്കാം നമ്മുടെ അടുത്ത ക്ലാസ്സിൽ സ്റ്റേറ്റ് വേരിയബിളിന്റെ മറ്റ് വശങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച നമ്മൾ തുടരും